ഇനി വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയി രൂപകൽപന ചെയ്തിട്ടുള്ള ഒപാംപ് ഉപയോഗിച്ച് കൊണ്ട് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നടപ്പിലാക്കാൻ ശ്രമിക്കാം ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഔട്ട്പുട്ട് വോൾട്ടേജിൻറെ Vo ii Rm എന്ന സമവാക്യം അനുസരിക്കുന്നു ഇതിൽ Rm കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ ട്രാൻസ് റസിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ് ഇംപിഡൻസ് ആണ് MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ കാര്യത്തിലെന്നപോലെ എറർ വോൾട്ടേജ് Vo ii Rm എന്ന് നിർവചിക്കാം ഇത് പൂജ്യത്തെക്കാൾ കൂടുതലാണെങ്കിൽ അതിൻറെ അർത്ഥം ഔട്ട്പുട്ട് വോൾട്ടേജ് ആവശ്യം ഉള്ളതിനേക്കാൾ കൂടുതലാണ് എന്നാണ് ഔട്ട്പുട്ട് കുറയ്ക്കേണ്ടതുണ്ട് അതുപോലെ ഇത് പൂജ്യത്തെക്കാൾ കുറവാണെങ്കിൽ ഔട്ട്പുട്ട് വർധിപ്പിക്കണം വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയി മോഡൽ ചെയ്ത ഒരു ഒപാംപ് പരിഗണിച്ചാൽ ഇതിൽ ഇൻപുട്ട് വോൾട്ടേജ് ഡിഫറൻസ് Vd എന്ന് കണക്കാക്കുക ഔട്ട്പുട്ട് Ao Vd ആയിരിക്കും Ao ഒരു വലിയ നമ്പർ ആയിരിക്കും Vd പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഒരു വലിയ പോസിറ്റീവ് വാല്യൂവിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെടും Vd നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഒരു വലിയ നെഗറ്റീവ് വാല്യൂവിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെടും അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കാൻ Vd കൂടുതൽ നെഗറ്റീവ് ആക്കണം അതായത് Vd കുറയ്ക്കണം അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആക്കണം അതുപോലെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ Vd കൂടുതൽ പോസിറ്റീവ് ആക്കണം ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് എറർ വോൾട്ടേജ് Vo ii Rm പൂജ്യത്തെക്കാൾ കുറവാണെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണം എന്നാണ് ഇവ രണ്ടും കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് Vo ii Rm പൂജ്യത്തെക്കാൾ കുറവായിരിക്കുമ്പോൾ Vd യഥാർത്ഥത്തിൽ പൂജ്യത്തെക്കാൾ കൂടുതലായിരിക്കണം എന്നാണ് Vd എന്നത് ഒപാംപിൻറെ ഇൻപുട്ട് ഡിഫറൻസ് വോൾട്ടേജ് ആണ് ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് Vd എന്നിങ്ങനെ ആണെങ്കിൽ Vd എന്നത് Vo ii Rm എന്നായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലേ ഇവിടെ വിവരിച്ചിട്ടുള്ള പ്രവൃത്തി സംഭവിക്കുകയുള്ളൂ Vd Vo ii Rm ആണെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ Vd 0 ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് വീണ്ടും നെഗറ്റീവ് വാല്യൂസിലേക്ക് കുറയുന്നു ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല അതിനാൽ Vd എന്നത് Vo ii Rm എന്നതിന് തുല്യമായിരിക്കണം ഇനി Vo ii Rm എങ്ങനെ ലഭിക്കും ട്രാൻസിസ്റ്റർ കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിലെ Vd എന്നതുപോലെ ഇത് ഔട്ട്പുട്ട് നോഡ് ഇത് ഇൻപുട്ട് കറൻറ് സോഴ്സ് എന്നിങ്ങനെ ആണെന്ന് കരുതുക ഞാൻ Rm ഇങ്ങനെ ബന്ധിപ്പിച്ചാൽ വോൾട്ടേജ് Vo ii Rm എന്നാകും ഇത് Vd എന്നതിന് തുല്യമാകണം ഇത് ചെയ്യാൻ ഉള്ള ഉചിതമായ രീതി ഇത് ഗ്രൌണ്ടും ആയി ബന്ധിപ്പിക്കുക എന്നതാണ് ഇനി നിങ്ങൾക്ക് Vd എന്നത് Vo ii Rm എന്നതിന് തുല്യമാണ് എന്ന് കാണാൻ കഴിയും അതിനാൽ ഒപാംപ് ഉപയോഗിക്കുന്ന കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ കാണപ്പെടുന്നു അതിനാൽ ഇത് Vo ഇത് Rm ഇത് ii എന്നിങ്ങനെയാണ് തീർച്ചയായും ഇൻപുട്ട് സോഴ്സ്സിന് ഇൻറർണൽ റെസിസ്റ്റൻസ് Rs ഉണ്ടാകുന്നതാണ് ഇനി ഒപാംപ് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയി മോഡൽ ചെയ്തിരിക്കുകയാണ് അതായത് ഈ വോൾട്ടേജ് Vd ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo എന്നത് Ao Vd ആയിരിക്കും ഇതിൽ നിന്നും എന്താണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ലളിതമാക്കാൻ വേണ്ടി ഞാൻ ഇതിൽ Rs ഉൾക്കൊള്ളിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളിച്ച് പരിശോധിക്കാം ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കാവുന്നതാണ് ഇവിടെ Vd എന്ന വോൾട്ടേജ് Vo ii Rm എന്നതിന് തുല്യമായിരിക്കണം കാരണം ഈ കറൻറ് റസിസ്റ്റൻസിലേക്ക് ഒഴുകണം ഒപാംപിലേക്ക് ഒന്നും പോകുന്നില്ല ഒപാംപിൻറെ ഇൻപുട്ട് റെസിസ്റ്റൻസ് തന്നെ ഇൻഫൈനൈറ്റ് ആണെന്ന് നാം അനുമാനിക്കുന്നു അതിനാൽ ഇത് Vd ക്ക് സമമാണ് ഇതിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് Vd Vo Ao എന്നാണ് ഇതിൽ നിന്നും നമുക്ക് Vo ii സമം Rm 1 1 Ao ആണെന്ന് മനസ്സിലാക്കാം ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറൻറ് എന്നിവ തമ്മിലുള്ള ആവശ്യമായ അനുപാതം ഡിനോമിനേറ്ററിൽ അധികമായി ചിലതുണ്ട് പക്ഷേ ഡിനോമിനേറ്റർ യൂണിറ്റിയിലേക്ക് ചുരുങ്ങുന്നു Ao ∞ ആണെങ്കിൽ ഈ അനുപാതം Rm എന്നതിലേക്ക് പോകുന്നു ഒപാംപിൻറെ ഗെയിൻ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് കൃത്യമായി ആവശ്യമുള്ളത് ലഭിക്കും ഇതാണ് ഒപാംപ് ഉപയോഗിച്ചുകൊണ്ടുള്ള കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഇനി മറ്റു പല കറൻറ് കൺട്രോൾഡ് ഉപകരണങ്ങൾ പോലെ പലപ്പോഴും ഈ ഉപകരണങ്ങളിൽ വോൾട്ടേജ് ഇൻപുട്ട് ഉപയോഗിക്കുന്നു നമുക്ക് ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് Rm ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇതാണ് സോഴ്സ് റെസിസ്റ്റൻസ് Rs നമുക്ക് പാരലൽ കോമ്പിനേഷനെ Rs ൻറെ സീരീസ് കോമ്പിനേഷൻ ആയി മാറ്റാൻ സാധിക്കും ii Rs വോൾട്ടേജ് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നു ഇനി സർക്യൂട്ട് തയ്യാറായാൽ കറൻറ് സോഴ്സിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന കാര്യം നമുക്ക് മറക്കാം ഇതിന് വോൾട്ടേജ് സോഴ്സ് Vi ആയി കണക്കാക്കാം ഇത് ഇങ്ങനെ വരയ്ക്കാം റെസിസ്റ്റൻസ് ഇൻപുട്ട് സോഴ്സുമായി സീരീസിൽ ആണുള്ളത് ഇനി ഇത് കറൻറ് സോഴ്സിൻറെ ഇൻറർണൽ റസിസ്റ്റൻസ് ആയിരുന്നു എന്ന കാര്യം നമുക്ക് മറക്കാം ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഇവിടെ സീരീസിൽ റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ റസിസ്റ്റൻസ് Rm എന്നിവ ഉണ്ട് ഇവിടത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ii Rm ആണ് ഇത് Vi Rm Rs എന്നും എഴുതാം ഇത് Vo ആണെങ്കിൽ Vo Vi എന്നത് RmRs ആയിരിക്കും തീർച്ചയായും ഇത് ട്രാൻസ് ഇംപിഡൻസ് ആംപ്ലിഫയർ ആയി പൊതുവേ ഉപയോഗിക്കുന്നില്ലെങ്കിൽ Rm Rs എന്നിങ്ങനെ അടയാളപ്പെടുത്താറില്ല ഇവയെ R1 R2 എന്നു മാത്രം വിളിക്കുന്നു അപ്പോൾ ഇത് R2 R1 എന്നാകുന്നു അതിനാൽ ഇത് വോൾട്ടേജ് സോഴ്സ് റസിസ്റ്റർ എന്നിവയുടെ ഒരു സീരീസ് കോംബിനേഷൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് പലപ്പോഴും ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഗെയിൻ Rs നെ ആശ്രയിക്കുന്നതായി കാണാം ഇത് വോൾട്ടേജ് സോഴ്സും ആയി സീരീസിൽ ആണ് ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് അല്ല കാരണം ഒരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൽ ഗെയിൻ Vi യുടെ ഇൻറർണൽ റസിസ്റ്റൻസിനെ ആശ്രയിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഇവിടെ ഇതുമായി സീരീസിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്നു കരുതുക ഗെയിൻ ആ റസിസ്റ്റൻസിനെ ആശ്രയിക്കും അതിനാൽ ഇതാണ് ഇൻറർണൽ റസിസ്റ്റൻസുമായി സീരീസിൽ ഉള്ള വോൾട്ടേജ് സോഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഇപ്പോൾ നാം രണ്ട് സർക്യൂട്ട് കണ്ടു ഈ കാണുന്ന ഒപാംപ് ഉപയോഗിച്ചുകൊണ്ടുള്ള വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ഈ കാണുന്ന ഒപാംപ് ഉപയോഗിച്ചുകൊണ്ടുള്ള കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ കാര്യത്തിൽ ഔട്ട്പുട്ട് കൃത്യമായി k Vi ആയിരിക്കും k റെസിസ്റ്റർ റേഷ്യോയിൽ നിന്ന് ലഭിക്കുന്നു ഇത് R R എന്നിങ്ങനെ ആണെങ്കിൽ ഇവിടെ കാണുന്നതാണ് K ഇതിനെ R2 R1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇത് 1 R2 R1 Vi ആയിരിക്കും ഇക്കാര്യത്തിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ii Rm ആയിരിക്കും ഇനി ഒപാംപിൻറെ ഗെയിൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് ശരിയായിരിക്കും ഗെയിൻ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒപാംപ് ഐഡിയൽ ഒപാംപ് എന്ന് അറിയപ്പെടുന്നു ഐഡിയൽ ഒപാംപിൻറെ കാര്യത്തിൽ ഇതിൻറെ ഗെയിൻ 1 R2 R1 ആയിരിക്കും ഇതിൻറെ ഗെയിൻ Rm ആയിരിക്കും വോൾട്ടേജ് സോഴ്സ് കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഇതിൻറെ ഒരു വേരിയൻറ് Vi R1 R2 ആയിരിക്കും ഒപാംപിൻറെ ഗെയിൻ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് R2 R1 Vi ആയിരിക്കും തീർച്ചയായും ഈ രണ്ട് സർക്യൂട്ടുകൾ നിങ്ങൾക്ക് വളരെ പരിചിതമാണ് ഇവ ക്ലാസിക് നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ എന്നിവയാണ് ഇങ്ങനെയാണ് ഒപാംപ് ഉപയോഗിച്ചും കൺട്രോൾ സോഴ്സസ് നിർമ്മിക്കാൻ സാധിക്കുന്നത് എങ്ങനെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്നിവ നിർമ്മിക്കാമെന്നാണ് നാം കണ്ടത്